അവസാന വീഡിയോയിൽ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നുകൾ ഞാൻ നിർവചിക്കുകയും പഠിക്കുകയും ചെയ്തു അവിടെ എല്ലാ ഐഡിയലും പ്രിൻസിപ്പൽ ആയ പ്രത്യേക ക്ലാസ് റിങ്ങുകൾ നമ്മൾ കണ്ടു ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യമുള്ള ചില റിങ്ങുകൾ പഠിക്കാൻ പോകുന്നു മാത്രമല്ല തീർച്ചയായും അതിൽ കൂടുതൽ പിഐഡികൾ ഉണ്ടാകും കൂടാതെ യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകളുടെ ഈ ആശയവും അവതരിപ്പിക്കും ഈ കോഴ്സിൽ നമ്മൾ പഠിച്ച രസകരമായ ഉദാഹരണങ്ങളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന നല്ല റിങ്ങുകൾ ആണിവനമ്മൾ നിർവചിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പ്രോപ്പർട്ടി വളരെ പ്രധാനമാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നുകളും വളരെ മനോഹരമാണ് പക്ഷേ പ്രോപ്പർട്ടി വളരെ പ്രത്യേകമാണ് നിരവധി നല്ല റിങ്ങുകളിൽ ആ പ്രോപ്പർട്ടി ഇല്ല ഉദാഹരണത്തിന് Z x റിംഗ് തികച്ചും നല്ല റിംഗ് ആണ് പക്ഷേ ഇത് ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്ൻ അല്ല എന്നാൽ ഇത് ഒരു യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നാണ് നമ്മൾ ഈ കോഴ്സിൽ തെളിയിക്കും യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകൾ റിങ്ങുകൾ ഒരു പ്രധാന ക്ലാസാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഇനിപ്പറയുന്ന പ്രോപ്പർട്ടി ആവശ്യപ്പെടാൻ പോകുന്നു ഓരോ ഘടകത്തിനും ഇറെഡ്യൂസിബ്ൾ ഘടകങ്ങളിലേക്ക് ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടായിരിക്കണമെന്നും ഫാക്ടറൈസേഷൻ യുണീക് ആയിരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു യുണീക് എന്നാൽ എന്താണെന്ന് ഞാൻ നിർവചിക്കും എന്നാൽ ഓർമിക്കേണ്ട മോഡൽ ഇനിപ്പറയുന്നവയാണ് നിങ്ങൾക്ക് പരിചിതമായ മോഡൽ പൂർണ്ണസംഖ്യകളുടെ റിങ് ആണ് കൂടാതെ എല്ലാ സംഖ്യകളെയും പ്രൈം നമ്പറുകളുടെ ഒരു പ്രോഡക്ട് ആക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചു പ്രൈം നമ്പറുകൾ പൂർണ്ണസംഖ്യകളിലെ ഇറെഡ്യൂസിബിൾ ഘടകങ്ങളാണ് കാരണം പൂർണ്ണസംഖ്യകളുടെ റിങ്ങിലെ ഗണത്തിൽ ഇറെഡ്യൂസിബിളും പ്രൈമും ഒരേ സങ്കൽപ്പങ്ങളാണ് ഓർമിക്കേണ്ട മോഡൽ പൂർണ്ണസംഖ്യകളുടെ റിങ് ആണ് ഓരോ സംഖ്യയും അടിസ്ഥാനപരമായി യുണീക് ആയി എഴുതാമെന്ന് നമുക്ക് പറയാൻ കഴിയും എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഉദ്ധരണികളിൽ ഇടുന്നതെന്ന് ഞാൻ പറയും കൂടാതെ പ്രൈം സംഖ്യകളുടെ ഒരു യുണീക് പ്രോഡക്ട് ആയി എഴുതാമെന്ന് പറയുകയും ചെയ്യും ഞാൻ ഇപ്പോൾ അവയെ പ്രൈം ഇൻറിജറുകൾ എന്ന് വിളിക്കാൻ പോകുന്നു കാരണം ആർബിട്രറി റിങ്ങിലെ പ്രൈം ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു പ്രൈം ഇൻറിജർ യഥാർത്ഥത്തിൽ ഒരു പ്രൈം ഇൻറിജറാണ് സ്കൂളിൽ പഠിച്ചതാണ് ഉദാഹരണത്തിന് 30 നെ 2 ഇന്റു 3 ഇന്റു 5 എന്ന് എഴുതാം പക്ഷേ ഇത് തികച്ചും യുണീക് അല്ല കാരണം എനിക്ക് ഇത് മൈനസ് 3 മൈനസ് 2 ഇന്റു മൈനസ് 3 ഇന്റു 5 എന്നും എഴുതാം ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച പ്രൈം ഇൻറിജറുകളുടെ സങ്കൽപ്പത്തിൽ നിന്ന് പോകുന്നു ഒരു പ്രൈം നമ്പർ പോസിറ്റീവ് നമ്പറായിരിക്കും എന്നാണ് സ്കൂളിൽ നമ്മൾ പഠിച്ചത് എന്നാൽ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിലെ പ്രൈം എലെമെന്റ്സ്സിനെക്കുറിച്ചുള്ള പൊതുവായ ധാരണയിൽ Z ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അതിനാൽ നെഗറ്റീവ് സംഖ്യകളെ ഒഴിവാക്കാൻ ഒരു കാരണവുമില്ല മൈനസ് 2 ഒരു പ്രൈം എലമെന്റ് ആണ് അതിനാൽ ഇത് ഇറെഡ്യൂസിബിൾ ഘടകമാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഇതുപോലെ എഴുതാം ഞാൻ ഇത് രണ്ടും വ്യത്യസ്തമായി കാണിക്കില്ല കാരണം 2 ഉം മൈനസും 2 പരിഗണിക്കും 2 മൈനസ് 2 എന്നിവയുടെ രൂപഭാവം ഒന്നുതന്നെയാണ് അതായത് 2 ആയാലും അല്ലെങ്കിൽ മൈനസ് 2 ആയാലും നമ്മൾ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല കാരണം അവർ അസോസിയേറ്റുകളാണ് ഇത് അവിടെ ഒരു നിർണായക പ്രസ്താവന ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് മോഡൽ ഇത് ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ റിംഗിലെ ഏതെങ്കിലും എലെമെന്റ്സ് ഇതുപോലെ ഫാക്റ്റർ ചെയ്യാമോയെന്ന്നും സാധ്യമെങ്കിൽ യുണീക് ആക്കമോയെന്നും നമുക്ക് നോക്കാം നമ്മൾ സ്കൂളിൽ പഠിച്ച ഇത് സംഖ്യകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിൽ ഇത് എത്രത്തോളം സാധ്യമാണ് എന്നതാണ് ചോദ്യം നിങ്ങൾ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിലേക്ക് പോയാൽ ഇതിൽ എത്രത്തോളം സാധ്യമാണ് ഒന്നാമതായി നമ്മൾ ഘടകങ്ങളെ ആഗ്രഹിക്കുന്നു ഫാക്ടറിംഗ് എങ്ങനെ ചെയ്യും R ഒരു ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്ൻ ആകട്ടെ നമ്മൾ പിന്നീട് ചില നിബന്ധനകൾ സ്ഥാപിക്കുകയും യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകൾ നിർവചിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിൽ നിന്ന് ആരംഭിക്കാം R എന്ന ഘടകം എടുക്കാം റഫർ സമയം 0416 ഘടകം a എങ്ങനെയാണ് നമ്മൾ ഒരു ഘടകത്തെ ഫാക്ടർ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇറെഡ്യൂസിബിളിന്റെ പ്രൊഡക്ടിലേക്കു എ യെ എങ്ങനെ ഫാക്ടർ ചെയ്യും എ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽനമ്മൾ നിർത്തുന്നു ഇത് ഒരു അൽഗോരിതം ആണ് അതിനാൽ എ ഇറെഡ്യൂസിബിൾ ആയാൽ നമ്മൾ നിർത്തുന്നു ഒന്നും ചെയ്യാനില്ല എ അതിൻറെ തന്നെ ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ആണ് ഉദാഹരണത്തിന് ഇന്റീജർ റിങ്ങിലെ 5 ഇറെഡ്യൂസിബിൾ ആണ് അതിനാൽ നിങ്ങൾക്ക് നിർത്താം കൂടുതൽ ചെയ്യരുത് എ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ നിർത്തുന്നു ചില a1 ന് a 1 b 1 എന്ന് എഴുതാം R ലെ b1 യൂണിറ്റുകളല്ല അവ രണ്ടും യൂണിറ്റുകളല്ല കാരണം എ ഇറെഡ്യൂസിബിൾ ആല്ലെങ്കിൽ പ്രോപ്പർ ഡിവൈസർ ഉണ്ടെന്ന് നമുക്കറിയാം a1പ്രോപ്പർ ഡിവൈസർ ആണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രോപ്പർ ഡിവൈസർ b1 കണ്ടെത്താൻ കഴിയും അതായത് a ഈക്വൽ റ്റു a ഇന്റു a1 b 1 നമ്മൾ a1 a 2 a1 b1 ൽ നിന്ന് പോയി a ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ നിർത്തുന്നു അല്ലാത്തപക്ഷം മറ്റ് രണ്ട് ഘടകങ്ങൾ എ 1 b 1 കണ്ടെത്താം a 1 ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിർത്തുന്നു b1 യും ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ നിർത്തുന്നു അതാണ് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ രണ്ടും ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ a1 b1 നൽകിയ ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ നിർത്തുന്നു ഇവയിലേതെങ്കിലും ഇറെഡ്യൂസിബിൾ അല്ലെങ്കിൽ നമ്മൾ തുടരുന്നു a1 b1 എന്നിവ രണ്ട് നോൺ യൂണിറ്റുകളുടെ ഒരു പ്രോഡക്ട് ആയി ശരിയായി ഫാക്ടറൈസ് ചെയ്താൽ നമ്മൾ ആ നാല് ഘടകങ്ങളെ നോക്കുന്നു അവയെല്ലാം ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിർത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ നിർത്തിയേക്കാം ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് ഇറെഡ്യൂസിബിൾ ആയ എല്ലാ ഘടകങ്ങളും ഉണ്ടെങ്കിൽനമ്മൾ നിർത്തുകയും അതുവഴി നമുക്ക് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ നേടുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം നമ്മൾ തുടരും എന്നേക്കും തുടരേണ്ടിവരാനും സാധ്യതയുണ്ട് ഇത് ഫാക്ടറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നു നമുക്ക് തുടരാനാകുമോ എന്നതാണ് ചോദ്യം എന്നെന്നേക്കുമായി തുടരാൻ കഴിയുമോ നിങ്ങൾ എന്നെന്നേക്കുമായി തുടരണമെങ്കിൽ അത് നല്ലതാവില്ല അതിനർത്ഥം ഒരു ഫാക്ടറൈസേഷനും ഇല്ല എന്നതിനാലാണ് കാരണം നിങ്ങൾ എവിടെയെങ്കിലും നിർത്തിയാൽ മാത്രമേ നമ്മൾ ഒരു ഫാക്ടറൈസേഷൻ നേടൂ R ൽ ഫാക്ടറൈസേഷൻ അവസാനിക്കുന്നുവെന്നു നമ്മൾ പറയുന്നു മുകളിൽ പറഞ്ഞ പ്രക്രിയ R ൽ ഓരോന്നിനും എവിടെയെങ്കിലും നിർത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്താൽ R ൽ ഫാക്ടറൈസേഷൻ അവസാനിക്കുന്നു ഇത് ഓരോ എ ക്കും നിർത്തുന്നുവെങ്കിൽനമ്മൾ ചിലത് ആരംഭിക്കുന്നു ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ നിർത്തുന്നു ഇല്ലെങ്കിൽ നമ്മൾ അത് ഘടകമാക്കുന്നു രണ്ട് ഘടകങ്ങളും ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ അവ രണ്ടും ഘടകമാക്കി വീണ്ടും തുടരും തുടർന്ന് റിംഗിലെ ഓരോ ഘടകത്തിനും എവിടെയെങ്കിലും നിർത്തുന്നുവെന്ന് കരുതുക അങ്ങിനെ വന്നാൽ ഫാക്ടറൈസേഷൻ R ൽ അവസാനിക്കുന്നുവെന്നു നമ്മൾ പറയുന്നു അതിനാൽ അത് ഒരു വാക്യമാണ് ഇത് ഒരു റിങ്ങിന്റെ പ്രോപ്പർട്ടി ആണ് R ൽ ഫാക്ടറൈസേഷൻ അവസാനിക്കുകയാണെങ്കിൽ R ന്റെ ഓരോ ഘടകത്തിനും ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ട് ഇത് വ്യക്തമാണ് ഫാക്ടറൈസേഷൻ R ൽ അവസാനിക്കുകയും നിങ്ങൾക്ക് R ന്റെ ആർബിട്രറി എലെമെന്റ്സ് എ നൽകുകയും ചെയ്താൽ മുമ്പത്തെ പേജിൽ നമ്മൾ വിവരിച്ച പ്രക്രിയ നമ്മൾ തുടരും അത് ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നമ്മൾ നിർത്തുംഅല്ലെങ്കിൽ ഫാക്റ്ററിംഗ് തുടരുകയും ആ ഫാക്ടർ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ നിർത്തും അല്ലെങ്കിൽ വീണ്ടും തുടരും അങ്ങിനെ ഒടുവിൽ അത് നിർത്തുകയും ചെയ്യുന്നു കാരണം ഫാക്ടറൈസേഷൻ R ൽ അവസാനിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു അത് ഒരു വാക്യമാണ് ആ വാചകം പ്രതിനിധീകരിക്കുന്നത് ഓരോ ഘടകത്തിനും ഈ പ്രക്രിയ നിർത്തുന്നു എന്നാണ് വ്യക്തമായും ഓരോ ഘടകത്തിനും ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ട് നമ്മൾ ഇതുവരെ യുണീക് എന്താണെന്നു പറഞ്ഞില്ല ഫാക്റ്ററൈസേഷൻ യഥാർത്ഥത്തിൽ എപ്പോൾ നിലനിൽക്കുന്നു എന്ന് സ്ഥാപിക്കാൻ മാത്രമേ എനിക്ക് ഇപ്പോൾ താൽപ്പര്യമുള്ളൂ ഫാക്ടറൈസേഷൻ അവസാനിക്കുമ്പോൾ ഇത് നിലവിലുണ്ട് ഇനിപ്പറയുന്ന ഉദാഹരണം കാണിക്കുന്നതുപോലെ പൊതുവായ ഫാക്റ്ററൈസേഷൻ അവസാനിക്കില്ലെന്ന് ഞാൻ ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു പൊതുവേ ഫാക്ടറൈസേഷൻ അവസാനിപ്പിക്കാനിടയില്ല ഞാൻ വിവരിച്ച മുകളിൽ പറഞ്ഞ പ്രക്രിയ ഒരിക്കലും അവസാനിക്കാനിടയില്ലഉദാഹരണമായി ഇനിപ്പറയുന്ന റിങ് നോക്കാം ഇസഡ് അഡ്ജോയിന്റ് സ്ക്വയർ റൂട്ട് 2 ഫോർത് റൂട്ട് ഓഫ് 2എയ്റ്റ് റൂട്ട് ഓഫ് 2 2 ന്റെ 16 ആം റൂട്ട് തുടങ്ങിയവ ഇത് യഥാർത്ഥത്തിൽ റിയൽ സംഖ്യകളുടെ ഒരു സബ്റിങ് ആണ് അവിടെ ഞാൻ 2 8 ാം റൂട്ടിനെയും 2ന്റെ 4 ാം റൂട്ടിനെയും സ്ക്വയർ റൂട്ട് 2നെയും കൂട്ടുന്നു ഈ റിങ്ങിന്റെ ഏതൊരു എലെമെന്റ് ചില പൂർണ്ണസംഖ്യയുടെ ഒരു നിശ്ചിത തുകയാണ് ഒരു എലെമെന്റ്സ്സിന്റെ 2 പവർ n th റൂട്ട് ഓഫ് 2 പ്ലസ് മറ്റൊരു എലെമെന്റ്സ് ന്റെ 2 പവർ n 1 റൂട്ടും 2 ന്റെ 2 ആം റൂട്ട് തുടങ്ങിയവ ഘടകങ്ങൾ ഇതുപോലെയാണ് ഉദാഹരണത്തിന് ഇത് ഒരു ഘടകമാണ് ഇത് 2 ന്റെ 124 128 റൂട്ട് ആകാം 3 ടൈംസ് ഇത് മൈനസ് 256 റൂട്ട് 2 അകാം ഇത് ഒരു റിങ്ങാണ് വാസ്തവത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏതൊരു കോമ്പിനേഷനും എനിക്ക് സ്ക്വയർ അല്ലെങ്കിൽ പവേഴ്സ് എടുക്കാം ഇത് ഇതിന്റെ ഒരു ഘടകമായിരിക്കും ഇവ ഘടകങ്ങളാണ് R ലെ ഈ റിംഗിൽ 2 ന് ഫാക്ടറൈസേഷൻ ഇല്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നു കാരണം ഞാൻ നേരത്തെ വിവരിച്ച അൽഗോരിതം പിന്തുടരാം 2 എന്നത് ഇറെഡ്യൂസിബിൾ അല്ല കാരണം ഇത് സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ റൂട്ട് 2 എന്നിവയുടെ പ്രോഡക്ട് ആണ് അവ രണ്ടും ഒരു യൂണിറ്റല്ല പക്ഷേ സ്ക്വയർ റൂട്ട് 2 ഒരു ഇറെഡ്യൂസിബിൾ എലെമെന്റ്സ് അല്ല കാരണം ഇത് ഫോർത് റൂട്ട് ഓഫ് 2 ഇന്റു ഫോർത് റൂട്ട് ഓഫ് 2 ആണ് അടിസ്ഥാനപരമായി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രക്രിയ തുടരാം ഇത് ഫോർത് റൂട്ട് ഓഫ് 2 പവർ 4 ആണ് പക്ഷേ എനിക്ക് എയ്റ്റ്ത് റൂട്ട് ഓഫ് 2 പവർ 8 16 റൂട്ട് 2 പവർ 16 32 റൂട്ട് 2 പവർ 32 ഇതൊക്കെ ചെയ്യാം എവിടെയും നിങ്ങൾ നിർത്തുന്നില്ല 2 ന് കൃത്യമായ ഫാക്ടറൈസേഷൻ ഇല്ല ഇത് ഒരു ഫാക്ടറൈസേഷനാണെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല കാരണം 2 ന്റെ 32 ാമത്തെ റൂട്ട് ഇറെഡ്യൂസിബിൾ എലെമെന്റ്സ് അല്ല ഇത് യഥാർത്ഥത്തിൽ 2 സ്ക്വയറിനെ 64 ാമത്തെ റൂട്ടായി മാറുന്നു അതായത് 32 സ്ക്വയർ റൂട്ട് 32 30 സെക്കൻഡ് സ്ക്വയർ റൂട്ട് 2 അത് 64 സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ഇത് തുടരാം നിങ്ങൾക്ക് ഒരു ഫാക്ടറൈസേഷൻ ഇല്ല അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇത് തീർച്ചയായും ഒരു വിചിത്രമായ റിങ്ങാണ് ഇത് മിക്ക സാധാരണ റിങ്ങുകളിലും സംഭവിക്കില്ല ഉദാഹരണത്തിന് നോതേരിയൻ റിങ്ങുകളിൽ ഇത് സംഭവിക്കില്ല പിന്നീട് നമ്മൾ ഇത് കാണും ഏതെങ്കിലും ഇന്റഗ്രൽ ഡൊമെയ്നിൽ ഫാക്ടറൈസേഷൻ നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് ഉടൻ തന്നെ നമ്മൾ നിഗമനം ചെയ്യുന്നു ഇത് തീർച്ചയായും ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് R എന്നത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് കാരണം ഇത് യഥാർത്ഥ സംഖ്യകളുടെ ഒരു സബ്റിങ് ആണ് അതുകൊണ്ടു തന്നെ ഫാക്ടറൈസേഷൻ തീർച്ചയായും സാധ്യമല്ല യുണീക് ഫാക്ടറൈസേഷൻ വിട്ടേക്കുക എല്ലാ ഇന്റഗ്രൽ ഡൊമെയ്നുകളിലും ഫാക്ടറൈസേഷൻ തന്നെ സാധ്യമല്ല ഇത് വളരെ മോശമാണ് ഒരുപക്ഷേ ഇന്റിജറുകൾക്ക് സംഭവിക്കുന്നത് എല്ലാ ഇന്റഗ്രൽ ഡൊമെയ്നിലും ഉപയോഗിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ ഉദാഹരണം കാണിക്കുന്നതുപോലെ അങ്ങനെയല്ല നമ്മൾ ആവശ്യപ്പെടണം അതിനാൽ R ൽ ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ ഫാക്റ്ററിംഗ് അവസാനിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം അത് നമ്മൾ ചോദിക്കണം ഈ ഉദാഹരണം കാണിക്കുന്നതുപോലെ എല്ലാ ഇന്റഗ്രൽ ഡൊമെയ്നിനും ഇത് ശരിയായിരിക്കിണമെന്നില്ല R ന്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് സംഭവിക്കണം ഇത് ഒരു പ്രത്യേക വ്യവസ്ഥയാണ് എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകതയിലേക്ക് വരാം ഇപ്പോൾ യുണീക്നെസ്സ് പൂർണ്ണസംഖ്യകൾക്ക് പോലും ശരിയല്ലെന്ന് ഓർക്കുക കാരണം ഫാക്ടറൈസേഷൻ 2 3 5 ഫാക്ടറൈസേഷൻ മൈനസ് 2 മൈനസ് 3 5 എന്നിവ ശരിക്കും സമാനമായി കണക്കാക്കണം എന്നിരുന്നാലും അവിടെ ദൃശ്യമാകുന്ന കൃത്യമായ ഘടകങ്ങൾ സമാനമല്ല ഞാൻ നിർവചിക്കാൻ ആഗ്രഹിക്കുന്ന യുണീക്നെസ്സ് ആശയം എന്താണ് ഒരു ചെറിയ എലെമെന്റ്സ് എ എങ്കിൽ അതിന് യൂണീക് ഫാക്ടറൈസേഷൻ ഉണ്ടെന്നു നമ്മൾ പറയുന്നു എനിക്ക് ഒരു ചെറിയ ഘടകം വേണം ഇനിപ്പറയുന്നവ സംഭവിക്കുകയാണെങ്കിൽ ചെറിയ രണ്ട് ഘടകത്തിന് യുണീക് ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഒന്നാമതായി എ ക്കു ഇറെഡ്യൂസിബിൾ ഘടകങ്ങളിലേക്ക് ഫാക്ടറൈസേഷൻ സംഭവിക്കണം അല്ലാത്തപക്ഷം ഫാക്ടറൈസേഷൻ ഇല്ലെങ്കിൽ ഫാക്ടറൈസേഷന്റെ പ്രത്യേകതയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല ഒന്നാമതായി ഇതിന് ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട് നമുക്ക് രണ്ട് വ്യത്യസ്ത ഫാക്ടറൈസേഷനുകൾ ഉണ്ടെങ്കിൽ p 1 മുതൽ pm വരെ ഈക്വൽ റ്റു q 1 മുതൽ qn വരെ ആണ് രണ്ട് വ്യത്യസ്ത ഫാക്ടറൈസേഷനുകൾ ഫാക്ടറൈസേഷൻ എന്ന് ഞാൻ പറയുമ്പോഴെല്ലാം ഞാൻ ഇറെഡ്യൂസിബിൾ ഘടകങ്ങളിലേക്ക് ഉള്ള ഫാക്ടറൈസേഷൻ എന്ന് അർത്ഥമാക്കുന്നു അതിനർത്ഥം p 1 മുതൽ pm q 1 മുതൽ qn വരെയുള്ളവയെല്ലാം ഇറെഡ്യൂസിബിൾ ഘടകങ്ങളാണ് അപ്പോൾ നമുക്ക് m ഈക്വൽ റ്റു n ഉണ്ടായിരിക്കണം ആവശ്യമെങ്കിൽ പുനക്രമീകരിച്ചതിനുശേഷം 1 മുതൽ m വരെയുള്ള എല്ലാ i ക്കും pi qi യുടെ ഒരു അസോസിയേറ്റാണ് ആരംഭിക്കുമ്പോഴും പുനക്രമീകരിക്കുന്നതിന് ശേഷവും m ഉം n ഉം തുല്യമാണ് കാരണം നമ്മൾ പുനക്രമീകരിക്കേണ്ടതുണ്ട് 2 3 5 മൈനസ് 3 5 മൈനസ് 2 പോലെയാണ് നിങ്ങൾ പുനക്രമീകരിക്കാത്ത പക്ഷം 2 ഉം മൈനസ് 3 ഉം അസോസിയേറ്റുകളാണെന്ന് പറയാൻ കഴിയില്ല അവയിലൊന്നു നമ്മൾ പുനക്രമീകരിക്കുന്നു ഇവിടെ മൂന്ന് ഘടകങ്ങളുണ്ട്ഇത് m ഇവിടെ മൂന്ന് ഘടകങ്ങളും ഉണ്ട് m ഉം n ഉം തുല്യമാണ്പുനക്രമീകരിച്ച ശേഷം 2 മൈനസ് 2 എന്നിവ അസോസിയേറ്റുകളാണ് തീർച്ചയായും പൂർണ്ണസംഖ്യകളുടെ റിങ്ങിൽ അവർ അസോസിയേറ്റുകളാണ് 3 മൈനസ് 3 ഇവയും അസോസിയേറ്റുകളാണ് തീർച്ചയായും 5 ഉം 5 ഉം അസോസിയേറ്റുകളാണ് കാരണം അവ യഥാർത്ഥത്തിൽ തുല്യ ഘടകങ്ങളാണ് യുണീക് ഫാക്ടറൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഘടകങ്ങൾ തുല്യമാണെന്നല്ല ഘടകങ്ങൾ അസോസിയേറ്റുകളാണ് മറ്റൊരു ഉദാഹരണം ഞാൻ Z i എഴുതാം ഇത് ഒരു PID ആണെന്ന് കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു വാസ്തവത്തിൽ ഓരോ പിഐഡിയും യുഎഫ്ഡിയാണെന്ന് നമ്മൾ തെളിയിച്ചതിന് ശേഷം ഇത് യുഎഫ്ഡിയായി മാറും എന്നാൽ ഈ റിംഗിൽ നമുക്ക് 2 പ്ലസ് ഐ ഇന്റു 2 മൈനസ് ഐ 5 ആണ് കാരണം 4 പ്ലസ് 1 ആണ് എന്നാൽ ഇത് 1 പ്ലസ് 2 i ക്ക് തുല്യമാണ് അല്ലെങ്കിൽ പകരം ഞാൻ 1 മൈനസ് 2 i 1 പ്ലസ് 2i എന്നിവ എഴുതാം ഇത് രണ്ടും അസോസിയേറ്റുകളാണ് കാരണം നിങ്ങൾ ഇത് i അല്ലെങ്കിൽ മൈനസ് കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും ഒപ്പം ഇവ രണ്ട് അസോസിയേറ്റുകളും ആണ് നിങ്ങൾ ഇത് i കൊണ്ട് ഗുണിച്ചാൽ ഐ സ്ക്വയർ മൈനസ് i സ്ക്വയർ അത് 1 2 i ഇതും യുണീക് ആണ് ഈ ഫാക്റ്ററൈസേഷനുകൾ യുണീക് ആണ് അല്ലെങ്കിൽ പകരം എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും അവ തുല്യമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ ഫാക്ടറൈസേഷനുകൾ സമാനമാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇതാണ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ R ഒരു യുഎഫ്ഡിയാണ് യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നിനായി ഞാൻ യുഎഫ്ഡി എന്ന ഹ്രസ്വ ചുരുക്കെഴുത്ത് ഉപയോഗിക്കും ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് തീർച്ചയായും ഇത് മൂന്ന് പദങ്ങൾ ആണ്യൂണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നാണ് ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കണം അതിനാലാണ് ഫാക്ടറൈസേഷൻ നിലനിൽക്കേണ്ടത് ഫാക്ടറിംഗ് R ൽ അവസാനിക്കുന്നു ഇത് സംഭവിക്കണം ഏതൊരു എലെമെന്റ്സ്ന്റെയും ഇറെഡ്യൂസിബിൾ ഘടകങ്ങളിലേക്ക് ഓരോ ഘടകത്തിനും ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട് അത് ആർ ലെ എല്ലാവർക്കുമായി യുണീക് ആണ് ഇതിന്റെ അർത്ഥത്തിൽ യുണീക് ആണ് അതിനാൽ ഇറെഡ്യൂസിബിളിന്റെ എണ്ണം തുല്യമായിരിക്കണം പുനക്രമീകരിച്ചതിന് ശേഷം അവ യുണീക് ആണെന്ന് ഞാൻ പറയുന്നു ആദ്യത്തേത് ആദ്യത്തേതിന്റെ ഒരു അസോസിയേറ്റാണ് രണ്ടാമത്തേത് രണ്ടാമത്തേതിന്റെ ഒരു അസോസിയേറ്റാണ് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി യുണീക്നെസ്സ് ആണ് ആദ്യത്തെ പ്രോപ്പർട്ടി ഒരു ഫാക്റ്ററിംഗ് ആണ് അതായത് ഒരു ഡൊമെയ്ൻ ഡി പരിപാലിക്കുന്നു യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്ൻ എന്നത് ഫാക്ടറിംഗ് അവസാനിപ്പിക്കുന്ന ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് കൂടാതെ ആദ്യത്തെ പ്രോപ്പർട്ടി എല്ലാ ഘടകങ്ങൾക്കും യുണീക് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ട് എന്നാണ് എന്നാൽ ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ യുണീക് ആയിരിക്കണം ഇപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്തും ഭാവിയിലെ വീഡിയോകളിലും നമ്മൾ യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകളുടെ സവിശേഷതകൾ പഠിക്കാൻ പോകുന്നു ആദ്യത്തെ പ്രോപ്പർട്ടി നേടുന്നതിനുള്ള ഒരു പ്രൊപോസിഷൻ ഞാൻ തെളിയിക്കട്ടെ ഫാക്റ്ററിംഗ് അവസാനിപ്പിക്കുന്നത് പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു ആ പ്രക്രിയ ലളിതമാക്കാൻ ഞാൻ ഒരു പ്രൊപോസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കട്ടെ തുടർന്ന് ഇനിപ്പറയുന്നവ തുല്യമാണ് ഇത് TFAE നായുള്ള ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ് അതിനർത്ഥം ദി ഫോളോയിങ് ആർ ഈക്വലന്റ് TFAE ഇനിപ്പറയുന്നവ തുല്യമാണ് രണ്ട് പ്രസ്താവനകൾ എന്തൊക്കെയാണ് ഫാക്ടറിംഗ് R ൽ അവസാനിക്കുന്നു അതാണ് നമുക്ക് കണ്ടെത്താൻ താൽപ്പര്യമുള്ളത് രണ്ടാമത്തെ വ്യവസ്ഥ ഏത് ഐഡിയലിന്റെയും ആരോഹണ ശൃംഖല ഏതെങ്കിലും ഐഡിയൽ മാത്രമല്ല വാസ്തവത്തിൽ പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല സ്ഥിരത കൈവരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നൊട്ടേഷൻ നമ്മൾ നോഥെറിയൻ റിങ്ങുകളെക്കുറിച്ച് സംസാരിച്ച ആ വീഡിയോയെ ഓർമ്മപ്പെടുത്തും നോഥെറിയൻ റിങ് ഒരു റിങ് ആണെന്ന് ഓർമ്മിക്കുക അവിടെ ഓരോ ആരോഹണ ശൃംഖലയും സ്ഥിരത കൈവരിക്കുന്നു പ്രിൻസിപ്പൽ എന്ന വാക്ക് നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ഒരു ദുർബലമായ കണ്ടീഷൻ ആണ് പ്രിൻസിപ്പൽ ഐഡിയലിന്റെ ആരോഹണ ശൃംഖല സ്ഥിരത കൈവരിക്കുന്നു പ്രത്യേകിച്ചും ഒരു നോതേറിയൻ റിങ്ങിന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അതിനാൽ അതിന് ആദ്യത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും ഏതെങ്കിലും നോതേറിയൻ റിംങ്ങിൽ ഫാക്ടറൈസേഷൻ അവസാനിക്കുന്നു അതിനാൽ ഇത് തെളിയിക്കാം ഇത് വളരെ ലളിതമാണെന്ന് 1 സൂചിപ്പിക്കുന്നത് 2 ആണെന്ന് നമുക്ക് തെളിയിക്കാം ഫാക്ടറിംഗ് R ൽ അവസാനിക്കുന്നുവെന്ന് കരുതുക കൂടാതെ പ്രൈമുകളുടെ ആരോഹണ ശൃംഖല എടുക്കാം പ്രിൻസിപ്പൽ ഐഡിയലിനു പകരം എ 1 എ 2 ൽ അടങ്ങിയിരിക്കുന്നു എ 2 എ 3ൽ അടങ്ങിയിരിക്കുന്നു പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല സ്ഥിരത കൈവരിക്കുന്നുവെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാത്ത പ്രിൻസിപ്പൽ ഐഡയലുകളുടെ ആരോഹണ ശൃംഖലയുണ്ടെന്ന് കരുതരുത് a1 ന് ഫാക്ടറൈസേഷൻ ഇല്ലെന്നു നമ്മൾ കാണിക്കും ഇത് ലംഘിക്കുമ്പോൾ ആ ഘടകം അവസാനിക്കുന്നു കാരണം ഇത് ഇതുപോലെ തുടരുകയാണെങ്കിൽ നമുക്ക് ഉള്ളത് a1 എന്നത് 2 ഇന്റു b 2 എന്ന് എഴുതാം A1 ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം a1 എ 2 സൃഷ്ടിച്ച ഐഡിയലിലാണ് അതിനർത്ഥം ചില ബി 2 ന് എ 2 ഇന്റു ബി 2 ആണ് അതുകൊണ്ട് എ 1 നെ എ 2 ബി 2 എന്ന് എഴുതാം പക്ഷേ എ 2 എന്നത് എ 3 സൃഷ്ടിച്ച ഐഡിയൽ ആണ് അതായത് എ 3 ബി 3 ബി 2 ഞാൻ b 2 അതേപടി നിലനിർത്തുന്നു പക്ഷേ എ 2 നെ എ 3 ഇന്റു b 3 എന്ന് എഴുതാം കൂടാതെ ഈ ശൃംഖല സ്ഥിരപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ പ്രസ്താവന ഇവിടെ ai ഒരു ഐ യുടെയും യൂണിറ്റല്ലെന്ന് സൂചിപ്പിക്കുന്നു Ai ചില i യുടെ യൂണിറ്റാണെങ്കിൽ അതിനർത്ഥം ai സൃഷ്ടിക്കുന്ന ഐഡിയൽ യൂണിറ്റ് ഐഡിയൽ ആയിരിക്കും എന്നാൽ യൂണിറ്റ് ഐഡിയൽ R ന് തുല്യമായിരിക്കും അതിനപ്പുറം എല്ലാം യൂണിറ്റ് ഐഡിയൽ ആണ് അതിനർത്ഥം ചെയിൻ സ്ഥിരത കൈവരിക്കുന്നു സ്ഥിരത എന്നാൽ ചില പരിമിതമായ ഘട്ടത്തിനുശേഷം എല്ലാം തുല്യമാണ് എന്നാണ് എ നൂറ് ഒരു യൂണിറ്റ് ആണെങ്കിൽ എ നൂറിന്റെ ഐഡിയൽ R ആണ് അതിനർത്ഥം a1 നൂറും ഒന്നും R A1 നൂറ് ആണ് രണ്ട് R ഉം ആണ് നൂറാം ഘട്ടത്തിനപ്പുറം എല്ലാം R ആണ് ശൃംഖല സ്ഥിരത കൈവരിക്കുന്നു എന്നാൽ അത് സ്ഥിരത കൈവരിക്കില്ലെന്നു നമ്മൾ അനുമാനിക്കുന്നു അപ്പോൾ ഇത് ഒരു യൂണിറ്റല്ല ഇവയെല്ലാം പ്രോപ്പർ ഫാക്ടറൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ എ 4 ബി 4 ബി 3 ബി 2 തുടരാം ഞാൻ ബി 3 ബി 2 കൊണ്ട് പോയി എ 3 യെ എ 4 ബി 4 ന്റെ പ്രോഡക്ട് ആയി എഴുതി തുടർന്ന് അത് തുടരുന്നു ഇപ്പോൾ ഒരു ലളിതമായ കാര്യമാണ് എ i b i എന്നിവ ഇറെഡ്യൂസിബിൾ ആണ് എന്നാൽ എ 1 ന് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫാക്റ്ററിംഗ് നിലനിർത്താൻ കഴിയില്ല എ 1 ന് പ്രോപ്പർ ഫാക്ടറൈസേഷൻ ഇല്ല ക്ഷമിക്കണം a1 ന് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഇല്ല പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ സ്ഥിരത ഇല്ലാത്ത ഒരു ശൃംഖലയുണ്ടെങ്കിൽ അവയിൽ ആദ്യത്തേതിന് അല്ലെങ്കിൽ അവയിലേതെങ്കിലും ഒന്നിന് ഒരു ഫാക്റ്ററൈസേഷൻ ഉണ്ടാകാൻ പാടില്ല ഇത് 1 ന്റെ വൈരുധ്യം ആണ് ഫാക്ടറിംഗ് അവസാനിപ്പിക്കുകയാണെങ്കിൽ 1 കേസ് 2 ആണ് പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ സ്ഥിരത ഉള്ള ആരോഹണ ശൃംഖല ഉണ്ടെങ്കിൽ 2 സൂചിപ്പിക്കുന്നത് 1 ആണെന്ന് നമുക്ക് തെളിയിക്കാം ഈ ചെറിയ കാര്യം നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ a1 ന് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ 1 ഫാക്റ്ററിംഗ് തുടർച്ചയായി ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുക ഇപ്പോൾ 2 സൂചിപ്പിക്കുന്നത് 1 ആണെന്ന് നമുക്ക് തെളിയിക്കാം അതിനാൽ ഇപ്പോൾ ഞാൻ 2 അനുമാനിക്കുന്നു സ്ഥിരത കൈവരിക്കുന്ന ഏതെങ്കിലും പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ ഒരു ശൃംഖലയുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു എ ഏതെങ്കിലും ഒരു ആർബിട്രറി ഘടകമായിരിക്കട്ടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിർവചിച്ച അൽഗോരിതം അവസാനിക്കും എന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അൽഗോരിതം എന്തായിരുന്നുവെന്ന് ഓർക്കുക എ ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ അതിനു ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഞാൻ 1 തെറ്റാണെന്ന് അനുമാനിക്കുകയും ഒരു വൈരുദ്ധ്യം നേടുകയും ചെയ്യുന്നുവെന്ന് കരുതുക എ ക്ക് ഫാക്ടറൈസേഷൻ ഇല്ലെന്ന് കരുതുക ഞാൻ കാണിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ രണ്ട് അനുമാനിക്കുന്നു എന്നിട്ട് ഒന്ന് തെളിയിക്കാം അതായത് ഫാക്ടറിംഗ് R ൽ അവസാനിക്കുന്നു അത് R ന്റെ ഓരോ ഘടകത്തിനും ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് പറയാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് R ൽ എ എന്ന് വിളിക്കുന്ന ഫാക്ടറൈസേഷൻ ഇല്ലാത്ത എലെമെന്റ്സ് ഉണ്ടെന്നു കരുതുക അതിനർത്ഥം നമുക്ക് a യെ എ 1 b1 ആയി ഫാക്റ്റർ ചെയ്യാമായിരുന്നു തുടർന്ന് a1 നെ എ 2 b 2 a 2 നെ എ 3 b 3 ആയി എ 3 യെ എ 4 b 4 എന്നിങ്ങനെ ആക്കി ഇത് എന്നെന്നേക്കുമായി തുടരണം ഈ അൽഗോരിതം എന്നെന്നേക്കുമായി തുടരുന്നു അതാണ് എ ക്കു ഫാക്ടറൈസേഷൻ ഇല്ലാത്തതിന്റെ അർത്ഥം എന്നാൽ അതിനർത്ഥം a സൃഷ്ടിച്ച ഐഡിയൽ a1 ആണ് കാരണം എ എന്നാൽ എ 1 ബി 1 ആണ് a1 സൃഷ്ടിച്ച ഐഡിയൽ a 2 ൽ ആണ് കാരണം a1 എ 2 b 2 ആണ് അതുപോലെ തന്നെ എ 2 സൃഷ്ടിച്ച ഐഡിയൽ എ3 സൃഷ്ടിച്ച ഐഡിയലിലാണ് ഇത് എന്നെന്നേക്കുമായി തുടരുന്നു ഇത് സ്ഥിരത കൈവരിക്കുന്നില്ല അതായത് അൽഗോരിതം എവിടെയും നിർത്തുന്നില്ല അതിനർത്ഥം ഇത് സ്ഥിരത കൈവരിക്കുന്നില്ല എന്നാണ് കാരണം ഓരോ ഘട്ടത്തിലും നമുക്ക് ശരിയായ ഫാക്ടറൈസേഷൻ ഉണ്ട് ഉദാഹരണത്തിന് എ നാലിൽ നിന്ന് സൃഷ്ടിച്ച ഐഡിയൽ എ 3 സൃഷ്ടിച്ച ഐഡിയലിനേക്കാൾ വളരെ വലുതാണ് ഇത് അങ്ങിനെ ആയിരുന്നില്ലെങ്കിൽ എ 3 ഉം എ 4 ഉം അസോസിയേറ്റ് ആകും അങ്ങിനെ ബി 4 ഒരു യൂണിറ്റാകും നിങ്ങൾ നിർത്തും യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഞാൻ ഈ ട്രീയിൽ എവിടെയെങ്കിലും കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം നമുക്ക് അനന്തമായ ഒരു ശൃംഖലയുണ്ട് ഒരുപക്ഷേ അത് ഇവിടെ നിർത്തുന്നുണ്ടാകാം ഒരു പക്ഷേ അത് ഇവിടെ നിർത്താം പക്ഷെ ബി 3 വീണ്ടും ഫാക്ടർ ചെയ്യാം നമ്മൾ നിർത്തുന്നില്ല നിങ്ങൾ ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അത് അവസാനിക്കുന്നില്ല സ്ഥിരതയില്ലാത്ത അനന്തമായ പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ ഒരു ശൃംഖല നമുക്ക് ലഭിക്കും ഇത് തികച്ചും ശരിയല്ല കാരണം ഇത് നിർത്തുന്നുണ്ടാകാം പക്ഷേ മറ്റെവിടെയെങ്കിലും ഇത് അവസാനിക്കുന്നില്ല പക്ഷെ അതിൽ കാര്യമില്ല എനിക്ക് പൊതുവായി അനുമാനിക്കാം റഫർ സമയം 2909 ഇത് അവസാനിക്കുന്നില്ലെന്ന് ഇത് സ്ഥിരത കൈവരിക്കില്ല അതിനാൽ 2 സൂചിപ്പിക്കുന്നത് 1 ആണ് ഈ പ്രൊപോസിഷന്റെ പ്രയോജനം നമുക്ക് നിഗമനം ചെയ്യാൻ കഴിയുന്നുഅത് ഇതാണ് R ഒരു നോതേറിയൻ ഇന്റഗ്രൽ ഡൊമെയ്നാണെങ്കിൽ ഒരു നോതേറിയൻ ഇന്റഗ്രൽ ഡൊമെയ്ൻ ഫാക്ടറിംഗ് R ൽ അവസാനിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ R ന്റെ ഓരോ ഘടകവും ഇറെഡ്യൂസിബിൾ ആണ് നോതെറിയൻസിന്റെ ഒരു പ്രോപ്പർട്ടി വളരെ ശക്തമാണ് കാരണം നോതേരിയൻ റിങ്ങുകൾ എല്ലാ ഐഡിയൽ ആരോഹണ ശൃംഖലകളും സ്ഥിരത കൈവരിക്കുന്നു അതേസമയം ഫാക്റ്ററിംഗ് അവസാനിപ്പിക്കുന്നതിന് നമുക്ക് പ്രിൻസിപ്പൽ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ഒരു നോതേരിയൻ റിംഗ് ഉണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ അവസാനിക്കുമെന്നു നമുക്ക് ഉറപ്പുണ്ടായിരിക്കാം അതിനാൽ ഓരോ ഘടകത്തിനും ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ ഉണ്ട് ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷൻ യുണീക് ആണെന്ന് ഇത് സൂചിപ്പിക്കാൻ പോകുന്നില്ല പക്ഷേ ഫാക്റ്ററൈസേഷൻ അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഓരോ ഘടകത്തിനും ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട് ഫാക്ടറൈസേഷൻ നിലവിലുണ്ടെങ്കിൽപ്പോലും യുണീക് ആയിരിക്കില്ല എന്നതിന് ഒരു ഉദാഹരണം നൽകി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും ഇത് യുണീക് ആയിരിക്കില്ല പ്രിയപ്പെട്ട ഉദാഹരണമായി മുമ്പ് നമ്മൾ പരിഗണിച്ച ഒന്നാണ് എടുക്കുന്നത് ഇത് ഇസഡ് അഡ്ജോയിന്റ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഇത് നമുക്ക് ശരിയായ താൽപ്പര്യമുള്ള എല്ലാ ഉദാഹരണങ്ങളും നൽകുന്നു പ്രൈം അല്ലാത്ത ഒരു ഇറെഡ്യൂസിബിൾ എലെമെന്റ്സ്സിന്റെ ഒരു ഉദാഹരണം ഇത് നൽകി യുണീക് ആയ ഉദാഹരണം നൽകിഇനി ഫാക്ടറൈസേഷൻ യുണീക് അല്ലാത്ത ഒന്നിന്റെ ഒരു ഉദാഹരണം നൽകാൻ പോകുന്നു ഇത് നമ്മൾ മുമ്പ് കണ്ട ഒന്നാണ് ഇത് നിങ്ങൾ ചെയ്യുക ഇവ വ്യത്യസ്തമാണെന്ന് കാണിക്കുക അവ ഞാൻ നേരത്തെ നിർവചിച്ചതുപോലെയല്ല എപ്പോഴാണ് രണ്ട് ഫാക്ടറൈസേഷനുകളെ നമ്മൾ ഒന്നാണെന്ന് പറയുക ഇറെഡ്യൂസിബിൾ ഘടകങ്ങളുടെ എണ്ണം തുല്യമാണ് പുനക്രമീകരിക്കുന്നതുവരെ അവ പരസ്പരം അസ്സോസിയേറ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് 2 ഉം 3 ഉം ഇറെഡ്യൂസിബിൾ ആണ് 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഉം 1 മൈനസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഉം ഇറെഡ്യൂസിബിൾ ആണ് ഇവ രണ്ടും ഇറെഡ്യൂസിബിൾ ഫാക്ടറൈസേഷനുകളാണ് എന്നാൽ 2 ഇവ രണ്ടിന്റെയും അസ്സോസിയേറ്റുകൾ അല്ല ഇത് നേരത്തെ കണ്ട കാര്യമാണ് ഈ വസ്തുത തെളിയിക്കുന്നതിലൂടെ ഇത് തെളിയിക്കാനാകും R ലെ യൂണിറ്റുകൾ 1 ഉം മൈനസ് 1 ഉം മാത്രമാണ് വേറെ യൂണിറ്റുകൾ ഇല്ല അതിനാൽ ഈ ഘടകങ്ങളിൽ രണ്ടോ ഇവയിൽ ഏതെങ്കിലും ഒന്നോ അസ്സോസിയേറ്റുകകളാകാം ഉദാഹരണത്തിന് 2 ഉം 1 പ്ലസ് റൂട്ട് മൈനസ് 5 അസോസിയേറ്റുകൾ ആകാം 1 പ്ലസ് റൂട്ട് മൈനസ് 5 2 ഇന്റു ഒരു യൂണിറ്റ് ആയിരിക്കും എന്നാൽ ഇത് പറയുന്നത് യൂണിറ്റുകൾ 1 ഉം മൈനസ് 1 ഉം ആണ് എന്നാണ് എന്നാൽ 2 ഇന്റു 1 എന്നത് 1 2 ഇന്റു മൈനസ് 1 അത് മൈനസ് 2 ആണ് ഇവ രണ്ടും 1 പ്ലസ് റൂട്ട് മൈനസ് 5 ന് തുല്യമല്ല നിങ്ങൾ ചെയ്തു നോക്കുക കൂടാതെ 2 ഇറെഡ്യൂസിബിൾ ആണെന്ന് തെളിയിക്കുക ഒരേ വാദം ഉപയോഗിച്ച് 3 ആണെന്നും സമാനമായ വാദം 1 പ്ലസ് റൂട്ട് മൈനസ് 5 ഉം 1 മൈനസ് റൂട്ട് മൈനസ് 5 ഉം ഇറെഡ്യൂസിബിൾ ആണെന്ന് തെളിയിക്കുന്നു അതിനാൽ ഇവ വ്യത്യസ്തമായ ഇറെഡ്യൂസിബിൾ ഘടകങ്ങളാണ് ഇത് യുണീക് അല്ല അതിനാൽ ഈ റിങ് യുഎഫ്ഡി അല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു നോതേരിയൻ റിംഗ് ആയി മാറുന്നു ഈ റിംഗിലാണ് ഫാക്ടറൈസേഷൻ അവസാനിക്കുന്നത് ഓരോ ഘടകത്തിനും ഇറെഡ്യൂസിബിൾ ഘടകങ്ങളിലേക്ക് ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട് എന്നിരുന്നാലും ഈ ഉദാഹരണം കാണിക്കുന്നതുപോലെ ഇത് ഒരു യുഎഫ്ഡി അല്ല കാര്യങ്ങൾക്ക് വിവിധ പ്രതിവാദ ഉദാഹരണങ്ങൾ നൽകുന്ന ഒരു പ്രധാന ഉദാഹരണമാണിത് ഈ വീഡിയോയിൽ അടുത്തതായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് യുഎഫ്ഡി എന്താണെന്ന് മനസിലാക്കി ഇവ റിങ്ങുകൾ ആണെന്നും ഫാക്ടറൈസേഷൻ നിലവിലുണ്ടെന്നും യുണീക് ആണെന്നും ഒരു നോതേറിയൻ റിംഗിൽ ഫാക്ടറൈസേഷൻ നിലവിലുണ്ടെന്നും നമ്മൾ തെളിയിച്ചു എന്നാൽ ഇത് യുണീക് ആയിരിക്കണമെന്നില്ല പക്ഷേ ഫാക്ടറൈസേഷൻ നിലവിലുണ്ട് ഇസഡ് അഡ്ജോയിന്റ് 2 റൂട്ട് 2 2 പവർ എൻ ത് റൂട്ട് ഓഫ് 2 പോലുള്ള മോശം റിങ്ങുകളിൽ ഫാക്ടറൈസേഷൻ പോലും നിലവിലില്ല ഇസഡ് അഡ്ജോയിന്റ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ന്റെ പോലുള്ള നല്ല റിങ്ങിൽ ഫാക്ടറൈസേഷൻ നിലവിലുണ്ടെങ്കിലും അത് യുണീക് അല്ല ശേഷിക്കുന്ന അടുത്ത കുറച്ച് വീഡിയോകളിൽ നമ്മൾ യുഎഫ്ഡികളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ കാണാൻ പോകുന്നു പ്രത്യേകിച്ചും ഒരു പിഐഡി ഒരു യുഎഫ്ഡിയാണെന്നു നമ്മൾ തെളിയിക്കും അത് യുഎഫ്ഡികളുടെ മികച്ച ഉദാഹരണങ്ങളുടെ ഒരു ശേഖരം നൽകുന്നു കൂടാതെ പിഐഡികളല്ലാത്ത എന്നാൽ യുഎഫ്ഡികളായ ചില റിങ്ങുകൾ ഉണ്ടെന്നു നമ്മൾ തെളിയിക്കും അത് അടുത്ത വീഡിയോയിൽ നോക്കാം